എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ എല്ലിന്റെ മുക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രവിചന്ദ്രൻ ഐഐടി കാൺപൂരിലെ ഹ്യുമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുള്ള ഇംഗ്ലീഷ് പ്രൊഫസർ ഞങ്ങൾ ഇതിനകം ആദ്യ ആഴ്ചയിൽ എത്തിക്കഴിഞ്ഞു തുടർന്ന് സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് ആസൂത്രണം എന്നിവയിൽ ഞാൻ ഇതുവരെ മൂന്ന് മൊഡ്യൂളുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ മൊഡ്യൂളിൽ അതായത് ആദ്യ ആഴ്ചയിലെ മൊഡ്യൂൾ നമ്പർ 4 ൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സോഫ്റ്റ് സ്കിൽസിന്റെ തരങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ സെൽഫ് മാനേജ്മെന്റിന് പ്രസക്തമായ സോഫ്റ്റ് സ്കിൽ അത് നിങ്ങളെത്തന്നെ വികസിപ്പിക്കുന്നു മുമ്പത്തെതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ ഒരു സമീപനം ഉപയോഗിക്കാൻ പോകുന്നു അവിടെ മറ്റ് സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നു ഇത് ചെയ്യുക അത് ചെയ്യുക തുടർന്ന് ചില സൌന്ദര്യവർദ്ധക സ്പർശനങ്ങൾ നൽകുക പക്ഷേ പ്രായോഗികമായി അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വികസനത്തിന് തുല്യമല്ല അതിനാൽ ഇവിടെ എന്റെ സമീപനം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരുതരം മാറ്റം സൃഷ്ടിക്കുക പരിഷ്ക്കരിക്കുക നിങ്ങളോടൊപ്പം എന്നെന്നേക്കുമായി നിലനിൽക്കുന്ന സോഫ്റ്റ്സ്കില്ലുകൾ വികസിപ്പിക്കുകയും അതേ സമയം ഉൾക്കൊള്ളുകയും ചെയ്യുക എല്ലാ മനുഷ്യ ഇടപെടലുകളിലും ആശയവിനിമയത്തിലും നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം നൽകും ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ദ്രുത ഹൈലൈറ്റുകൾ മുമ്പത്തേതിൽ മനുഷ്യന്റെ ധാരണകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എടുത്തുപറഞ്ഞു മനുഷ്യബന്ധങ്ങളിൽ ശരിയായ ധാരണ എങ്ങനെ നിർണ്ണയിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു ഞാൻ പറഞ്ഞ ധാരണകൾ വ്യത്യസ്തവും പലപ്പോഴും പരസ്പരവിരുദ്ധവുമായിരിക്കും നമ്മൾ ഒരേ വസ്തുവിനെ കാണുന്നുണ്ടെങ്കിലും ഒരേ വസ്തുവിനെക്കുറിച്ച് നമുക്ക് രണ്ട് വ്യത്യസ്ത ധാരണകളുണ്ട് പിന്നെ മുൻവിധികളാൽ നയിക്കപ്പെടരുത് പ്രത്യേകിച്ച് മനുഷ്യ ഇടപെടലുകളിൽ ഇതിനായി നിങ്ങൾ വൈകാരികമായും സന്തുലിതമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കോപം പ്രകടിപ്പിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള വികാരം പ്രകടിപ്പിക്കുന്നതിന് മുമ്പോ ശല്യപ്പെടുത്തുന്ന പെരുമാറ്റം ആദ്യ സന്ദർഭത്തിൽ തന്നെ വ്യക്തിയെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുക അത്തരമൊരു രീതിയിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റീഫൻ കോവിയിൽ നിന്നുള്ള ഉദാഹരണം നൽകി തുടർന്ന് അദ്ദേഹം പ്രശസ്തനാക്കുന്നു പ്രസ്താവനഃ ആദ്യം മനസ്സിലാക്കാനും പിന്നീട് മനസ്സിലാക്കാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് പരാതിപ്പെടുന്നതിനുപകരം ആദ്യം എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള അസാധാരണമായ രീതിയിൽ പെരുമാറുന്നതെന്ന് മനസിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഇത് മുമ്പത്തെ പ്രഭാഷണത്തെക്കുറിച്ചാണ് എന്നാൽ മറുവശത്ത് ചില പൊതുവായ നുറുങ്ങുകൾഃ ഈ കോഴ്സിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പഠനം നടത്തുന്നതിൽ സംതൃപ്തരാകരുത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില പേരുകൾ ഇടുന്നു ചില ആശയങ്ങൾ ഇടുന്നു കുറച്ച് പുസ്തകങ്ങൾ ഇടുക അത് നിങ്ങൾക്ക് കൂടുതൽ വായനയ്ക്കായി ഉപയോഗിക്കാം ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ നിർദ്ദേശിച്ച അധിക മെറ്റീരിയലുകളിൽ നിന്ന് നിങ്ങൾ ആകാംക്ഷയോടെ പഠിക്കണം ഒന്ന്ഃ സ്റ്റീഫൻ കോവിയുടെ വളരെ ഫലപ്രദമായ ആളുകളുടെ ഏഴ് ശീലങ്ങളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ സ്റ്റീവ് ജോബ്സിന്റെ പ്രശസ്തമായ പ്രാരംഭ വിലാസം പരിശോധിക്കാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങളിൽ മിക്കവരും ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കാൻ ശ്രമിക്കുക ഈ പ്രഭാഷണം അവസാനിച്ചതിന് ശേഷം പുസ്തകം വാങ്ങി വീഡിയോ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ വീണ്ടും ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടാകാംഃ ഞാൻ ഇതുവരെ നിങ്ങളെ ചില സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും സോഫ്റ്റ് സ്കിൽസ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചുവെങ്കിൽ അവ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ കഴിവുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ ചില പ്രധാന ആശയങ്ങളും ആശയങ്ങളും യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ സെൽഫ് മാനേജ്മെന്റ് വൈകാരിക നിയന്ത്രണം സമയ മാനേജ്മെന്റ് കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചില സോഫ്റ്റ് കഴിവുകൾ ഞാൻ പരോക്ഷമായി പഠിപ്പിച്ചിട്ടുണ്ട് സോഫ്റ്റ് സ്കിൽസിന്റെ വീക്ഷണകോണിൽ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഇപ്പോൾ വീണ്ടും ഒരു ദ്രുത വീണ്ടെടുക്കൽ പ്രിവ്യൂ നിങ്ങളെ മനസ്സിലാക്കും അതെ തീർച്ചയായും ഞാൻ നിങ്ങളെ ചില സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ എനിക്ക് കുതിരയെ കുളത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ അത് കുടിക്കണോ വേണ്ടയോ എന്നത് കുതിരയെ ആശ്രയിച്ചിരിക്കുന്നു ഇവ ചില കഴിവുകളാണെന്ന് ഞാൻ ഒരു അന്തരീക്ഷവും അവബോധവും സൃഷ്ടിച്ചു നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം നിങ്ങളുടെ ദൈനംദിന പെരുമാറ്റത്തിൽ അത് നടപ്പിലാക്കേണ്ടതുണ്ട് അങ്ങനെ ആ കഴിവുകൾ നിങ്ങളുടെ ഭാഗമാകും ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ തയ്യാറാക്കാൻ ശ്രമിക്കുന്ന ആദ്യ മൊഡ്യൂളിൽ അവരെ നോക്കുക ഈ കോഴ്സിലേക്ക് നിങ്ങളെ നന്നായി ട്യൂൺ ചെയ്യുക നിങ്ങൾ ഈ കോഴ്സിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളെ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ ഒരു ഷെഡ്യൂൾ ആസൂത്രണം ചെയ്യുക തയ്യാറെടുക്കുക ഈ കോഴ്സ് ചെയ്യുന്നതിന് ആസൂത്രണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമത്തേതിൽ വ്യക്തമായ ഉദ്ദേശ്യബോധം ഉണ്ടായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വയം അവബോധത്തിലാണ് ഞാൻ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് മനസ്സിൽ അവസാനത്തോടെ ആരംഭിക്കുന്നതിനെക്കുറിച്ചും തുടർന്ന് അവസാനത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു നിങ്ങൾ ഒരു പുതിയ ദൌത്യം ആരംഭിക്കുന്നതിന് മുമ്പ് മനസ്സ് യഥാർത്ഥത്തിൽ അന്തിമഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഈ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പുതന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഏതെങ്കിലും ടാസ്ക് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നതെന്ന് സ്വയം ചോദിക്കുക ഈ കോഴ്സിന്റെ അവസാനം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അതോ സർട്ടിഫിക്കറ്റല്ലാതെ മറ്റെന്തെങ്കിലും വേണോ നിങ്ങൾ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു പിന്നെ മനസ്സിൽ അവസാനത്തോടെ ആരംഭിക്കുക നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് നിങ്ങളുടെ ആജീവനാന്ത ദൌത്യം എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇപ്പോൾ ഇടവേള എടുക്കുക ഒരു ഇടവേള എടുക്കുക തിരിഞ്ഞുനോക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതാവസാനത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ആ നാല് പ്രധാന ആളുകൾ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചോ ഇപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ആസൂത്രണം ചെയ്യാൻ പോകുന്ന രീതിയിൽ വലിയ മാറ്റമുണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ക്രമീകരിക്കുക ഇപ്പോൾ പറഞ്ഞതുപോലെ രണ്ടാമത്തെ മൊഡ്യൂളിൽ വിശാലമായി ഞാൻ സ്വയം അവബോധത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്നാൽ ഒരു പുതിയ ദൌത്യം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അന്തിമഫലത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു കാരണം ഇത് നിങ്ങളുടെ മുൻഗണനകൾ അറിയാനും ക്രമീകരിക്കാനും നിങ്ങളെ സഹായിക്കും ഇപ്പോൾ നിങ്ങളുടെ മുൻഗണനകൾ എന്താണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുന്നു ഉയർന്ന മൂല്യവും കുറഞ്ഞ മൂല്യവുമുള്ള ജോലികൾ എന്തൊക്കെയാണ് പിന്നെ പതുക്കെ നിങ്ങൾ മൂല്യമില്ലാത്ത ജോലികൾ ഉണ്ടെന്ന് മനസിലാക്കാൻ ശ്രമിക്കുന്നു അതിനായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളെ വികസിപ്പിക്കാൻ സഹായിക്കില്ല നിങ്ങളുടെ വ്യക്തിത്വമോ മൃദുവായ കഴിവുകളോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുക ഒരു മൂല്യമുള്ള ജോലിയല്ല അപ്പോൾ നിങ്ങൾ ഉയർന്ന മൂല്യമുള്ള ജോലികൾ മാത്രം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞാൻ പ്രതിബദ്ധത ആവശ്യപ്പെടുകയായിരുന്നു കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങൾ ഇച്ഛാശക്തിയും സ്ഥിരോത്സാഹവും ഉപയോഗിക്കേണ്ടതുണ്ട് പിന്നെ ഞാൻ പോയി ഞാൻ കേട്ടു പിന്നെ ഞാൻ നിങ്ങളോട് പെർസെപ്ച്വൽ വ്യത്യാസങ്ങളെക്കുറിച്ചും പറയുകയായിരുന്നു നമ്മുടെ സ്വന്തം ധാരണകളിലെ വ്യത്യാസങ്ങൾ അതിനാൽ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാൻ പഠിക്കേണ്ടത് പ്രധാനമാണെന്ന് പറഞ്ഞ് അതിന്റെ അവസാനം ഞാൻ ഉപസംഹരിച്ചു സ്വയം അനുകമ്പ കാണിക്കുക എന്നത് നിങ്ങൾ വികസിപ്പിക്കേണ്ട ഒരുതരം സോഫ്റ്റ് സ്കിൽ ആണ് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും സോഫ്റ്റ് സ്കിൽസിന്റെ ഒൻപത് പ്രധാന വശങ്ങളെക്കുറിച്ച് ഞാൻ എടുത്തുകാണിക്കാൻ പോകുന്നു ഒൻപത് പ്രധാന വശങ്ങൾ നിങ്ങൾ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ നൂറുകണക്കിന് കഴിവുകൾ പറയുന്നു എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒമ്പത് വിശാലമായ സോഫ്റ്റ് സ്കില്ലുകളിൽ മറ്റെല്ലാ കഴിവുകളും ഉൾപ്പെടുത്താം ഈ മൊഡ്യൂളിൽ സ്വയം മാനേജ്മെന്റ് നൈപുണ്യ സെറ്റിന് കീഴിൽ വരുന്ന ഈ ഒമ്പത് നൈപുണ്യ സെറ്റുകളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇപ്പോൾ ഈ ഒൻപത് പ്രധാനമാണ് അതിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രമല്ല നിങ്ങൾ പഠിക്കുകയാണ് ഞാൻ പോലും പഠിപ്പിക്കാൻ പോകുന്നില്ല അത്തരം ആശയങ്ങൾ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു തുടർന്ന് ഈ ചോദ്യങ്ങൾ വാചാടോപപരമായ ചോദ്യങ്ങളാണ് അതിനർത്ഥം ഉത്തരങ്ങൾ അന്തർലീനമാണ് ശരിയായ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് മാറ്റുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് ഇല്ലാതാക്കുക അതിനുശേഷം അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കുക സ്വയം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദഗ്ദ്ധ്യം സ്വയം അവബോധമാണ് ഇപ്പോൾ സ്വയം ബോധവൽക്കരണം നിങ്ങൾ സ്വയം അറിയണമെന്ന് പറയുമ്പോൾ അജ്ഞാതമായ ആത്മാവ് ജീവിക്കാൻ യോഗ്യമായ ഒന്നല്ല നിങ്ങൾ ആദ്യം അറിയണം നിങ്ങൾ സ്വയം അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്തെ കീഴടക്കാൻ കഴിയും ഇവയെല്ലാം നിങ്ങൾക്ക് അറിയാം എന്നാൽ ഈ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകഃ നുഴഞ്ഞുകയറുന്ന ചില ചോദ്യങ്ങളും അവയ്ക്ക് നിങ്ങൾ എങ്ങനെ ഉത്തരം നൽകും ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങൾ നോക്കുക നിങ്ങളുടെ സ്വയം അവബോധത്തിന്റെ നിലവാരം നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ പരിഹരിക്കുക നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടരുക മെച്ചപ്പെടുത്തുക നീയെന്തിനാ മടിയനാകുന്നത് നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംഘർഷ പരിഹാരം നിങ്ങൾ അലസതയെ മറികടക്കുമെന്ന് തീരുമാനിക്കാൻ ശ്രമിക്കുക എന്നതാണ് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസം നിങ്ങൾ സ്വതന്ത്രരാകും നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കും അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കും കൂടുതൽ ജോലികൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ അല്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ ദൌത്യം തിരിച്ചറിയുകയും തുടർന്ന് നിങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യും ഒരു ദർശനത്തോടെ അപ്പോൾ നിങ്ങൾ എന്നെന്നേക്കുമായി സന്തുഷ്ടരാകും എന്നാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മടിയനാകുന്നത് എന്താണ് നിങ്ങളെ മടിയനാക്കുന്നത് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ ഒരു ജോലിക്കായി പോകുമ്പോൾ അത് 9 മുതൽ 5 വരെ ജോലിയാണെങ്കിൽപ്പോലും നിങ്ങളെ എന്തു ചെയ്യും 5 മണിക്ക് ശേഷം ജോലി ചെയ്യുകയാണോ ഇടയ്ക്കിടെ നിങ്ങളുടെ വാച്ച് നോക്കാതെ ജോലി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് നിങ്ങളെ ആവേശത്തോടെ നിരീക്ഷിക്കുന്ന ആ ജോലി ഏതാണ് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത് അതിനാൽ നിങ്ങളുടെ സ്വയം അവബോധത്തിന് തുല്യമായ ഉത്തരങ്ങളാണിവ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ആരാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് അത് ഒരു വ്യക്തിയാണോ ഇത് ഒരു വ്യക്തിയുടെ രൂപമാണോ പിന്നെ ചിലരെ പോലെ കുട്ടിയുടെ നിഷ്കളങ്കത നോക്കൂ അവർ വളരെ പ്രചോദിതരാണ് ചില ആളുകൾ സൂര്യാസ്തമയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു പ്രകൃതി തന്നെ വളരെ വലിയ പ്രചോദനമാണ് ചില ആളുകൾ മഹത്തായ നേട്ടങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്താണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് പിന്നെ ആരാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത് നിങ്ങൾ ആരെയെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കുകയും തുടർന്ന് നിങ്ങൾക്ക് ദേഷ്യം തോന്നുകയും ചെയ്യുന്നുവെന്ന് കരുതുക ഇപ്പോൾ എന്താണ് നിങ്ങളെ നിർണ്ണയിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ശാന്തതയും സമാധാനവും പുലർത്തുന്നത് ഏത് സമയത്താണ് നിങ്ങൾ പൂർണ്ണമായും സമ്മർദ്ദരഹിതരാകുന്നത് നിങ്ങൾ പൂർണ്ണമായും ശാന്തനും സമാധാനിയുമാണ് അതിരാവിലെയാണോ രാത്രി വൈകിയോ അതോ നിങ്ങളുടെ ഉച്ചകഴിഞ്ഞുള്ള ഉറക്കത്തിന് ശേഷമോ ഒരു ദിവസത്തിൽ നിങ്ങൾ ശാന്തവും സമാധാനപരവുമായ സമയം ഏതാണ് ഒരു മാസത്തിൽ എത്ര ആഴ്ചകൾ നിങ്ങൾ പൂർണ്ണമായും സമാധാനപരമാണ് നിങ്ങൾക്ക് ഒരു സമ്മർദ്ദവുമില്ല ഉറക്കമില്ലായ്മയുടെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങി എത്ര ദിവസം അങ്ങനെ കടന്നുപോയി പിന്നെ എന്തിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ ഭയം എന്താണ് നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണ് എപ്പോഴാണ് നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നത് നിങ്ങൾക്ക് അൽപ്പം ലജ്ജ തോന്നുകയും നിങ്ങൾക്ക് ലജ്ജ തോന്നുകയും ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുകയും ചെയ്യുമ്പോൾ എപ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് നിങ്ങളുടെ പ്രേരകശക്തികൾ എന്തൊക്കെയാണ് എന്താണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് അത് പണമാണോ അത് ശക്തിയാണോ അത് ഏതെങ്കിലും തരത്തിലുള്ള സൌന്ദര്യമാണോ ചില സൌന്ദര്യശാസ്ത്രങ്ങൾ ലോകത്തെ മാറ്റാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യമമാണോ ഇത് നിങ്ങൾ സ്വയം മാറണമെന്ന് നിങ്ങൾ കരുതുന്ന എന്തെങ്കിലും ഉണ്ടോ എന്താണ് നിങ്ങളെ നയിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്നത് നിങ്ങൾക്ക് മതിയായ പ്രചോദനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിനാണ് ആരോടെങ്കിലും അസൂയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വയം സംതൃപ്തരല്ലാത്തത് ആരെങ്കിലും നിങ്ങളെക്കാൾ മികച്ച എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത് പിന്നെ എപ്പോഴാണ് നിങ്ങൾ ആരെയെങ്കിലും വിലമതിക്കുന്നത് ഒരാളിൽ ചില ഗുണങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ എപ്പോഴാണ് കാണിക്കുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും സ്വയം തിരക്കിലാണോ അവർ നിങ്ങളെക്കാൾ മികച്ചവരാണെന്ന് ആരോടും ആരോടും പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും സമയമില്ലേ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ഒരാളിലേക്കോ മറ്റെന്തിലേക്കോ ആകർഷിക്കപ്പെടുന്നത് നിങ്ങളെ ആകർഷിക്കുന്ന മറ്റൊരാളുടെ ഗുണമോ ഗുണമോ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും അടിമപ്പെടുന്നത് അത് നല്ല ആസക്തിയോ മോശം ആസക്തിയോ ആകാം നിങ്ങൾക്ക് ഒരു പുസ്തകം വായിക്കാൻ അടിമപ്പെട്ടേക്കാം നിങ്ങൾക്ക് ടിവിയിൽ എന്തെങ്കിലും കാണുന്നതിന് അടിമയാകാം നിങ്ങൾക്ക് ഇന്റർനെറ്റിന് അടിമയാകാം ഫേസ്ബുക്കിന് അടിമയാകാം മയക്കുമരുന്നിന് അടിമപ്പെടുക സിഗരറ്റിന് അടിമപ്പെടുക നിരവധി കാര്യങ്ങൾക്ക് അടിമപ്പെടുക എന്നാൽ നിങ്ങൾ എന്തിനാണ് അടിമപ്പെടുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ ആസക്തി ഉണ്ടാക്കുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുകപോലും ചെയ്യാത്തപ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുക്കുന്നത് എന്നാൽ നിങ്ങൾ ആ വ്യക്തിയെ നോക്കുന്ന നിമിഷം നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയെ വെറുക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് അതിനും ഒരു കാരണവുമില്ല നിങ്ങൾ എന്തിനാണ് ഒരാളെ സ്നേഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ആവശ്യമായ ഒരു തരത്തിലുള്ള അവബോധം സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ അത് സ്വയം അവബോധത്തിന് കീഴിലാണ് നമുക്ക് രണ്ടാമത്തെ വലതുവശത്തേക്ക് പോകാം ആത്മവിശ്വാസം ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ അതോ നിങ്ങൾക്ക് അമിത ആത്മവിശ്വാസമുണ്ടോ അതോ നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടോ നിങ്ങൾ ഈ മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ ചില വശങ്ങളിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ആത്മവിശ്വാസമുണ്ടാകാം എന്നാൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ പൂർണ്ണമായും ആത്മവിശ്വാസക്കുറവ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് തുല്യമായ എന്തും നേടാനുള്ള ശക്തിയും ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതാണ് ആന്തരികമായ ആത്മവിശ്വാസം ശരി പുറത്ത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ ലജ്ജ തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ശക്തിയുണ്ടെന്ന് നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടാനുള്ള ആ ശക്തി നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് സ്വയം മാനേജ്മെന്റ് കഴിവുകളുടെ കാര്യത്തിൽ നിങ്ങൾ വികസിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നൈപുണ്യമാണ് മൈൻഡ് സെറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് മാനസികാവസ്ഥയുണ്ടോ നിങ്ങൾ എല്ലായ്പ്പോഴും ജീവിതത്തിന്റെ റോസി ചിത്രം കാണുന്നുണ്ടോ അതോ എല്ലായ്പ്പോഴും ഇരുണ്ട എന്തെങ്കിലും നോക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സ് പ്രശ്നങ്ങൾ നോക്കുന്നുണ്ടോ അതോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി വരുന്നുണ്ടോ നിങ്ങൾ ഒരു പ്രശ്ന സ്രഷ്ടാവോ പ്രശ്നപരിഹാരകനോ ആണോ അതിനാൽ ഏത് സാഹചര്യത്തിലും ആളുകൾ ഉണ്ട് അവർ ആദ്യം പ്രശ്നങ്ങൾ നോക്കും ഏത് സാഹചര്യത്തിലും മറ്റുള്ളവർ ഉണ്ട് അവർ എല്ലായ്പ്പോഴും എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും മികച്ച പരിഹാരം കാണാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ മനസ്സ് എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണോ അതോ പരിഹരിക്കുന്നതാണോ പിന്നെ മാനസികാവസ്ഥയുടെ മറ്റൊരു വശം നിങ്ങൾക്ക് കർക്കശമായ സ്ഥിരമായ മാനസികാവസ്ഥയുണ്ടോ അതോ വഴക്കമുള്ള വളർച്ചാ മാനസികാവസ്ഥയുണ്ടോ സ്ഥിരമായ മാനസികാവസ്ഥയ്ക്കും വളർച്ചാ മാനസികാവസ്ഥയ്ക്കും ഇടയിൽ ഈ ആശയങ്ങളിൽ ചിലത് വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ ഞാൻ വിശദീകരിക്കും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതുതരം മാനസികാവസ്ഥയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് സ്ഥിരമായ മാനസികാവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ആശയങ്ങൾക്ക് തയ്യാറല്ല നിങ്ങൾ പോലും ഇതുപോലുള്ള ചില കോഴ്സുകൾക്ക് തയ്യാറല്ല അതിനാൽ നിങ്ങൾക്ക് ഇതിനകം തന്നെ എല്ലാം അറിയാമെന്ന് നിങ്ങൾ കരുതുന്നു കോഴ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ സംശയത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ നിശ്ചലമായിരിക്കുന്നു നിങ്ങൾ പുതിയതായി ഒന്നും പഠിക്കാൻ വിസമ്മതിക്കുകയാണ് വളർച്ചാ മനോഭാവമുള്ള ആളുകൾ പഠിക്കാൻ വളരെയധികം കാര്യങ്ങളുണ്ടെന്ന് എല്ലായ്പ്പോഴും അറിയുകയും അവർ തെറ്റുകൾ വരുത്തുകയും ചെയ്യുന്നു എന്നാൽ അവർ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും അവ വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും പിന്നീട് വളരുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ സ്ഥിരതയിലാണോ അതോ വളർച്ചയുടെ മാനസികാവസ്ഥയിലാണോ എന്ന് നോക്കുക നിങ്ങളുടെ മനസ്സ് പഠിക്കാനും പഠിക്കാനും അവസരം തേടുന്നുണ്ടോ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും വളരുകയാണോ അതോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലും പരാതിപ്പെടുന്നതിലും നിങ്ങളുടെ മനസ്സ് മുഴുകിയിരിക്കുകയാണോ അതിനാൽ ചില ആളുകൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്ഃ ഞാൻ തെറ്റ് ചെയ്തുവെന്ന് മനസ്സ് കരുതുന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് ഞാനല്ലെന്ന് മനസ്സ് കരുതുന്നു അത് അവൻ കാരണമാണ് എൻറെ മാതാപിതാക്കൾ കാരണം എൻറെ ബോസ് കാരണം എന്റെ മകൻ കാരണം ഭാര്യ കാരണം എന്റെ സഹപ്രവർത്തകൻ സുഹൃത്ത് ശത്രു കാരണം അത് ഞാൻ കാരണമല്ല സംഭവിച്ചത് നിങ്ങളുടെ മനസ്സ് എന്താണ് ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ മാനസികാവസ്ഥ നിർണ്ണയിക്കുന്നു നിങ്ങൾക്ക് ഒരു വളർച്ചാ മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ ഉണ്ടായിരിക്കുക ഇപ്പോൾ വൈകാരിക സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട അടുത്ത 3 സ്കിൽ സെറ്റുകൾ നോക്കാം സമ്മർദ്ദത്തെ നേരിടുകയും പരാജയത്തെ നേരിടുകയും ചെയ്യുക ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വീണ്ടും നിർണ്ണയിക്കുകയും സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ വൈകാരിക സന്തുലിതാവസ്ഥ ഇന്ന് വൈകാരിക സന്തുലിതാവസ്ഥയ്ക്കൊപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന അടുത്ത വശങ്ങൾ ആത്മീയ ബുദ്ധിയാണ് ഇവ രണ്ടും ഈ രണ്ട് നൈപുണ്യ സെറ്റുകളും നിങ്ങൾ വളരെ വിജയകരമായ ഒരു വ്യക്തിയാണോ എന്ന് നിർണ്ണയിക്കുന്ന പ്രധാന നൈപുണ്യ സെറ്റുകളാണെന്ന് കരുതുന്നു വിജയകരമായത് ഭൌതികതയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് നിങ്ങൾ ഒരു വിജയിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുമോ എന്നത് സമഗ്രമായ പദമാണ് അതിനാൽ ഈ രണ്ട് വശങ്ങൾ മാത്രമാണ് അവർ നിർണ്ണയിക്കുന്നത് ബുദ്ധിശക്തിയാണ് നിങ്ങളുടെ വിജയത്തിന്റെ തോത് നിർണ്ണയിക്കുന്നതെന്ന മുൻ ചിന്തയാണ് ബുദ്ധിപരമായ അളവ് ഇപ്പോൾ എന്താണ് ഈ ഇക്യു വൈകാരികമായ അളവ് വൈകാരികമായ ബുദ്ധി ഞാൻ അതിനെ ഇങ്ങനെ വിളിക്കുന്നു വൈകാരിക ബാലൻസ് നിങ്ങളുടെ വൈകാരിക സാക്ഷരത എത്രത്തോളം മികച്ചതാണ് വൈകാരികമായി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തറിയാം നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രണത്തിലാണെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ വികാരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ വൈകാരിക ബുദ്ധിയുടെ നിലവാരം നിങ്ങളുടെ ഇക്യു എന്താണ് ആരുമായും എല്ലായ്പ്പോഴും നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരാളാണോ ചില ആളുകളുമായി മാത്രമേ നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ മറയ്ക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിന്നും കണ്ണുകളിൽ നിന്നും നിങ്ങളുടെ മുഴുവൻ ശരീരത്തിൽ നിന്നും ഈ വികാരം വാക്കേതരമായി പ്രകടിപ്പിക്കപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ലേ ചിലരുടെ മുന്നിൽ നിങ്ങൾക്ക് ബലഹീനത അനുഭവപ്പെടുന്നുണ്ടോ ചില ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവർ നിങ്ങളുടെ ബോസ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ നിങ്ങൾ അത്ര നല്ല അവസ്ഥയിലല്ലെന്ന് കരുതുക ശക്തരായ ആളുകൾക്ക് മുന്നിൽ നിങ്ങളെക്കാൾ സമ്പന്നരായ ആളുകൾക്ക് മുന്നിൽ നിങ്ങൾക്ക് അൽപ്പം ഭയവും ബലഹീനതയും അനുഭവപ്പെടുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങളുണ്ടോ കോപം നിരാശ വേദന തുടങ്ങിയ നിങ്ങളുടെ നിഷേധാത്മക വികാരങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു പ്രതികരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു നിങ്ങൾ മറ്റുള്ളവരോട് നിലവിളിക്കുന്നുണ്ടോ അതോ നിങ്ങൾ സ്വയം ശാന്തരാക്കുകയാണോ തുടർന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തുകയും തിരിഞ്ഞുനോക്കുകയും കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുകയും ഭാവിയിൽ അത്തരം പരിക്കുകൾ കുറയ്ക്കുന്നതിനുള്ള പരിഹാരവുമായി നിങ്ങൾ പുറത്തുവരികയും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉദാരമായി പെരുമാറുന്നുണ്ടോ ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉദാരമായി പെരുമാറുന്നുണ്ടോ അതോ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഏറ്റവും നീചത കാണിക്കുന്നുണ്ടോ അതിനാൽ അത് വലിയ വ്യത്യാസമുണ്ടാക്കുന്നു നിങ്ങളുടെ സ്വന്തം വികാരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് യുക്തിസഹമായി ചിന്തിക്കാനും വസ്തുനിഷ്ഠമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമോ അതായത് നിങ്ങൾ പൂർണ്ണമായും വികാരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വസ്തുനിഷ്ഠവും യുക്തിസഹവുമായ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടാനോ കഴിയുമോ നിങ്ങളുടെ ആന്തരിക വികാരങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ആന്തരികമായ ചില ഭയങ്ങളും ആശങ്കകളും പിന്നെ ഏറ്റവും രസകരമായ ചിന്തകളും പങ്കിടാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു ഗ്രൂപ്പിൽ കുറഞ്ഞത് ഒരാളെങ്കിലും ഉണ്ടോ അത് സാധ്യമാണോ പരിഭ്രാന്തരാകാതെ നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയുമോ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് സ്വയം ചോദിച്ചാൽ ഈ ഗുണങ്ങളെല്ലാം നിങ്ങളുടെ വൈകാരിക സാക്ഷരതയെക്കുറിച്ചുള്ള പ്രധാന സൂചനകളാണ് ഇതിലേക്ക് മടങ്ങിവരും എന്നാൽ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടരുക വാസ്തവത്തിൽ നിങ്ങൾ ഇത് ചോദിക്കുകയും തുടർന്ന് എഴുതുകയും തുടർന്ന് ചിന്തിക്കുകയും ചെയ്യുക ഉത്തരം എഴുതുകഃ ഞാൻ ഈ തലത്തിലാണ് എനിക്ക് ഈ വ്യക്തിയെ ഭയമാണ് എന്നിട്ട് അത് ബോധപൂർവ്വം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക മനസ്സിൽ കരുതുകയും ആ സാഹചര്യത്തെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ പിന്നീടുള്ള ഘട്ടത്തിൽ ചിലതരം വൈകാരിക പ്രശ്നങ്ങൾ മറികടക്കുന്നതിലേക്ക് മടങ്ങിവരും ഇപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റിനെക്കുറിച്ച് സ്ട്രെസ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ സ്ട്രെസ് കൈകാര്യം ചെയ്യുന്നു അത് നിർണ്ണയിക്കുകയും ചെയ്യുന്നു വൈകാരികമായി എത്ര ശക്തമാണ് എന്നതുപോലെ നിങ്ങൾ ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങളുടെ സ്വയം മാനേജ്മെന്റ് നൈപുണ്യത്തെക്കുറിച്ചും അത് പറയുന്നു സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലും നിങ്ങൾ ശാന്തവും ശാന്തവും സംയമനത്തോടെ ഇരിക്കുകയാണോ തങ്ങളുടെ സുഹൃത്തുക്കളും പിന്തുണക്കാരും ഉള്ള ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ തണുപ്പായി തുടരാൻ കഴിയൂ എന്ന് ചിലർ കരുതുന്നു എന്നാൽ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കഠിനമായ സാഹചര്യത്തിൽ നിങ്ങൾ ശാന്തത പാലിക്കുകയും സംയമനം പാലിക്കുകയും ചെയ്യുമോ വ്യക്തിപരവും തൊഴിൽപരവുമായ തലങ്ങളിൽ ആളുകളുമായി ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടോ വീട്ടിൽ പോകുന്നത് നിങ്ങൾ വെറുക്കുന്നു അതിനാൽ നിങ്ങൾ ബാറിൽ പോയി ധാരാളം കുടിക്കുകയും തുടർന്ന് വീട്ടിലേക്ക് പോകുകയും വീണ്ടും നിലവിളിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ അബോധാവസ്ഥയിൽ നിങ്ങൾ ഒന്നും കേൾക്കുന്നില്ല തുടർന്ന് നിങ്ങൾ പരന്നുകിടക്കുന്നു ഓഫീസ്ഃ വീണ്ടും നിങ്ങൾ പോകുക നിങ്ങളുടെ സഹപ്രവർത്തകനെ നേരിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ബോസിനെ നേരിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ വീട്ടിലും ഓഫീസിലും നിങ്ങൾ അത്തരമൊരു പരസ്പരവിരുദ്ധമായ സമ്മർദ്ദകരമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടോ സമ്മർദ്ദകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തുവരുമെന്ന് നിങ്ങൾക്കറിയാമോ സമ്മർദ്ദം ഒരു കാര്യമാണ് ചിലപ്പോൾ അത് സ്വയം പ്രചോദിപ്പിക്കപ്പെടുന്നതാണെന്ന് നിങ്ങൾക്കറിയാം മിക്കപ്പോഴും ഇത് ഒരു മിഥ്യയല്ല ഇവയെല്ലാം തിരിച്ചറിയാവുന്ന ഭീഷണികളാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ സമ്മർദ്ദകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തുവരണമെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് സമ്മർദ്ദം കുറയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ സമ്മർദ്ദം നീക്കം ചെയ്യുകയും തുടർന്ന് നിങ്ങൾ കൂടുതൽ ഉൽപ്പാദനക്ഷമമാവുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ അടുത്ത വൈദഗ്ധ്യം പരാജയത്തെ നേരിടുന്നതുമായി ബന്ധപ്പെട്ടതാണ് പരാജയത്തെ നിങ്ങൾ എങ്ങനെ നേരിടും പരാജയം യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയത്തിനുള്ള ഒരു ചുവടുവെപ്പാണോ നിങ്ങളുടെ പരാജയത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ആ പരാജയം ഉപയോഗിക്കുകയും ചെയ്യുമോ നിങ്ങളുടെ വിജയം ഒരു വലിയ പോയിന്റാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിൽ കുടുങ്ങാൻ പോകുകയാണോ പരാജയങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിനാൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വീണ്ടും നിർണ്ണയിക്കുന്നു ഒരു സെറ്റ് ബാക്കിന് ശേഷം തിരിച്ചുവരാനുള്ള പ്രതിരോധശേഷി നിങ്ങൾക്കുണ്ടോ അതിനാൽ ആളുകളുണ്ട് ഒരു ചെറിയ തിരിച്ചടി പോലും അതിനാൽ അവർ വളരെ നിരാശരാകുന്നു വൈകാരികമായി അസ്വസ്ഥരാകുന്നു അവർ ഒരിക്കലും വീണ്ടും ശ്രമിക്കുന്നത് നിർത്തുന്നില്ല അവർ അത് നിർത്തുന്നു അതേസമയം തിരിച്ചുവരവ് നടത്തുന്ന ആളുകളുണ്ട് അവർ നിരാശയുടെ ആഴത്തിലേക്ക് പോകുന്നു പിന്നെ അവർ അതിൽ നിന്ന് പുറത്തുവരുന്നു അവർ വീണ്ടും ഉയർന്നുവരുന്നു അവിശ്വസനീയമായ ഉയരം കാരണം പ്രതിരോധശേഷി അതൊരു മൃദുവായ വൈദഗ്ധ്യമാണ് നിങ്ങൾക്ക് സ്ഥിരോത്സാഹവും സ്ഥിരോത്സാഹവും ഉണ്ടോ വീണ്ടും മറ്റ് സോഫ്റ്റ് കഴിവുകൾ തടസ്സങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ ആസൂത്രണം തുടരാൻ നിങ്ങളുടെ ദൌത്യം പൂർത്തിയാകുന്നതുവരെ അതേ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും നിങ്ങൾക്കുണ്ടോ ഒരു പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ വളരെയധികം ഉത്സാഹത്തോടെയും ഊർജ്ജത്തോടെയും ആരംഭിക്കുന്ന ആളുകളുണ്ട് എന്നാൽ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം അവർക്ക് എല്ലാ ഊർജ്ജവും ഉത്സാഹവും നഷ്ടപ്പെടുന്നു കാരണം അവർക്ക് പിന്തുണ ലഭിക്കുന്നില്ല അവർക്ക് ഒരു പ്രോത്സാഹനവും ലഭിക്കുന്നില്ല ഈ സമയത്താണ് അവർ സ്വയം വിശ്വസിക്കേണ്ടത് അവർ അവരുടെ അക കാമ്പ് വളരെ ശക്തമായിരിക്കണം ആന്തരിക ആത്മവിശ്വാസത്തിൽ വിശ്വസിക്കുകയും തുടർന്ന് മുന്നോട്ട് നീങ്ങുകയും വേണം തിരിച്ചുവരവിനായി അവർക്ക് ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം സ്ഥിരോത്സാഹം സ്ഥിരോത്സാഹം എന്നിവ ആവശ്യമാണ് ഇപ്പോൾ സ്വയം മാനേജ്മെന്റിനായി നിങ്ങൾക്ക് ആവശ്യമായ അടുത്ത മൂന്ന് പ്രധാന നൈപുണ്യ സെറ്റുകൾ നോക്കാം ക്ഷമ സഹിഷ്ണുത വിശ്വാസ്യത എന്നിവ പരസ്പരം ഏറെക്കുറെ അടുത്തിരിക്കുന്നതിനാൽ ഞാൻ അവയെ ഒരു നൈപുണ്യമായി നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്ഷമയോടെയിരിക്കുക എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഒരു പ്രധാന സോഫ്റ്റ് സ്കിൽ കാരണം മറ്റുള്ളവർ തിരക്കുകൂട്ടുമ്പോൾ ശാന്തത പാലിക്കാനുള്ള ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ദൂതന്മാർ നടക്കാൻ ഭയപ്പെടുന്ന ഇടത്തേക്ക് വിഡ്ഢികൾ തിടുക്കത്തിൽ പ്രവേശിക്കുന്നു എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കാം കോണുകൾ ഒരു പാത സ്വീകരിക്കാൻ ഭയപ്പെടുമ്പോൾ പോലും വിഡ്ഢികൾ തിടുക്കത്തിൽ ഓടുന്നു ഇപ്പോൾ ജ്ഞാനികൾ എന്തെങ്കിലും ചെയ്യാൻ ഭയപ്പെടുമ്പോൾ പോലും വിഡ്ഢികളായ ആളുകൾ അത് ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യും ഇപ്പോൾ ഈ സാഹചര്യം മനസിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടോ ശരിയായ നീക്കത്തിനുള്ള ശരിയായ അവസരത്തിനായി കാത്തിരിക്കാൻ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണോ അതോ അക്ഷമയോടെ കാത്തിരിക്കുകയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ കോപം നഷ്ടപ്പെടുന്നു നിങ്ങൾ ഒരു ഹ്രസ്വ സ്വഭാവക്കാരനാണെന്ന് കാണിക്കുക കാര്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാക്കുക ഇത് നിങ്ങൾക്ക് വളരെ അസുഖകരവും പൂർണ്ണമായും പ്രതികൂലവുമായിത്തീരുന്നു അതിനാൽ ക്ഷമ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വ്യക്തിപരമായ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബന്ധങ്ങളിൽ നടപടി ആരംഭിക്കുന്നതിന് ഉചിതമായ സമയത്തിനായി നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കണം ഇത് ഉചിതമാണെന്നും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും നിങ്ങൾ കരുതുമ്പോൾ നടപടിയെടുക്കുക ഒപ്പം അതിൽ ആശങ്കയുള്ള മറ്റെല്ലാവരും നിങ്ങൾക്ക് ഉയർന്ന സഹിഷ്ണുതയുണ്ടോ ഇന്ന് അസഹിഷ്ണുത ലോകമെമ്പാടും ഒരുതരം ഉന്മാദമായി മാറിയിരിക്കുന്നു ആളുകൾ അമിതമായി മാറിയിരിക്കുന്നു അസഹിഷ്ണുത ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോട് അസഹിഷ്ണുത പേരിന്റെ കാര്യത്തിൽ വ്യത്യാസം ജാതി മതം നിറം എന്നിവയുടെ കാര്യത്തിൽ വ്യത്യാസം ഭാഷ ദേശീയത അങ്ങനെ ഒന്നല്ലാത്ത എന്തും അതിനാൽ ആളുകൾ ഒരുതരം ആകുന്നു അസഹിഷ്ണുത എന്നാൽ ഞാൻ സംസാരിക്കുന്നത് അത്തരം അസഹിഷ്ണുതയെക്കുറിച്ചല്ല മറിച്ച് സഹിഷ്ണുതയെക്കുറിച്ചാണ് നിങ്ങൾ വികസിപ്പിക്കേണ്ട സോഫ്റ്റ് സ്കിൽ നിങ്ങൾക്ക് ഉയർന്ന സഹിഷ്ണുതയുണ്ടോ വ്യത്യസ്ത തരത്തിലുള്ള ഗുണങ്ങളുള്ള ആളുകൾ വളരെ അസഹിഷ്ണുത കാണിക്കുമ്പോൾ ചില ആളുകൾ വളരെ അസഹിഷ്ണുത കാണിക്കുന്നു നിങ്ങളെ അലോസരപ്പെടുത്തുന്നു വന്ന് നിങ്ങളോട് സംസാരിക്കുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കോപം നഷ്ടപ്പെടും ഇപ്പോൾ നിങ്ങൾക്ക് ആ സഹിഷ്ണുതയുണ്ടോ നിങ്ങൾക്ക് ആളുകളെ സഹിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ സഹിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ആളുകൾക്ക് നീണ്ട കയർ നൽകാൻ കഴിയുമോ എല്ലായ്പ്പോഴും മറ്റൊരാളുടെ കോർട്ടിൽ പന്ത് തള്ളുന്നതും തള്ളുന്നതും നിങ്ങളാണോ അപ്പോൾ നിങ്ങളുടെ പക്ഷം കാത്തിരിക്കുക നിങ്ങൾ സഹിഷ്ണുത പുലർത്തുമോ ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ വിശ്വാസയോഗ്യതയാണ് നിങ്ങൾക്ക് ആവശ്യമായ മറ്റൊരു പ്രധാന സോഫ്റ്റ് സ്കിൽ നിങ്ങൾ ഇതുവരെ അത് വികസിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് വികസിപ്പിക്കുക വിശ്വാസയോഗ്യതയോടൊപ്പം ഉത്തരവാദിത്തവും പ്രതിബദ്ധതയുമുള്ളവരാണോ നിങ്ങൾ നിങ്ങൾ സത്യം പറയുകയോ ഇടയ്ക്കിടെ നുണ പറയുകയോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും മാത്രം പറയുകയോ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ നുണകൾ മാത്രം പറയുന്നത് രസകരമാണ് എന്നാൽ നിങ്ങൾക്ക് ശരിക്കും വികസിപ്പിക്കണമെങ്കിൽ വ്യക്തിത്വം ദീർഘകാലാടിസ്ഥാനത്തിൽ അത് സഹായിക്കാൻ പോകുന്നില്ല 100 ശതമാനം സത്യമുള്ള നിങ്ങളുടെ വാക്കിൽ കൂടുതൽ ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയും ആളുകൾ നിങ്ങളെ വിശ്വസിക്കും അപ്പോൾ കൂടുതൽ ആളുകൾ നിങ്ങളിൽ നിക്ഷേപിക്കും കൂടുതൽ ആളുകൾ അവർ വന്ന് നിങ്ങൾക്ക് വിജയം നൽകും അത് സത്യവുമായി ബന്ധപ്പെട്ട വളരെ വിശ്വാസയോഗ്യമായ ഒന്നായിരിക്കണം സത്യസന്ധതയുടെയും സമഗ്രതയുടെയും നല്ല മാനദണ്ഡങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ധാർമ്മികമായി പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ ധാർമികമായി നല്ല രീതിയിലാണോ പെരുമാറുന്നത് ധാർമ്മികമായി ശരിയോ തെറ്റോ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ എല്ലായ്പ്പോഴും ശരിയായ പാത തിരഞ്ഞെടുക്കുന്നുണ്ടോ നിങ്ങൾ ധാർമ്മികമായി ശരിയാണോ ആരും ഇല്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ പക്ഷേ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഒന്നും സംഭവിക്കില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ധാർമ്മികമായി ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മേലധികാരിയുടെ അഭാവം നിങ്ങളുടെ മാതാപിതാക്കളുടെ അഭാവം നിങ്ങളുടെ പങ്കാളിയുടെ അഭാവം അങ്ങനെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുക പിന്നെ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ച ഗ്രഹണശേഷി നിങ്ങൾ ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ചും നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ മറ്റേ വ്യക്തിയെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സംസാരിക്കാത്ത ആശയവിനിമയ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആളുകൾ പലപ്പോഴും ഒരു കാര്യം പറയുന്നു പക്ഷേ അവർ വ്യത്യസ്തമായ എന്തെങ്കിലും അർത്ഥമാക്കുന്നു എന്തെങ്കിലും ചിലപ്പോൾ അവർ അർത്ഥമാക്കുന്നത് നേരെ വിപരീതമാണ് അവർ എന്തോ പറയുന്നു അവരുടെ ശരീരഭാഷ അർത്ഥമാക്കുന്നത് നേരെ വിപരീതമാണ് ഇപ്പോൾ നിങ്ങൾ വാക്കേതര സൂചനകളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ അവരുടെ കണ്ണുകൾ എന്താണ് പറയുന്നത് അവരുടെ മുഖഭാവങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമോ പലപ്പോഴും ആളുകൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും അവർ അത് അർത്ഥമാക്കുകയോ അർത്ഥമാക്കുകയോ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേരെ വിപരീതമോ നിങ്ങളുടെ മനസ്സ് തുറന്നിട്ടുണ്ടോ വിവാദപരമായ ആശയങ്ങൾ കേൾക്കുമ്പോഴോ നിങ്ങളുടെ മനസ്സ് മുൻവിധികളാൽ നിറഞ്ഞിരിക്കുമ്പോഴോ നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്കത് തുറക്കാൻ കഴിയുമോ നിങ്ങൾ ആളുകളെ ശരിയായി മനസ്സിലാക്കുന്നുണ്ടോ എത്ര തവണ ആളുകൾ വന്ന് നിങ്ങളോട് പറയും ഓ നിങ്ങൾ എന്നെ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു ആളുകൾ അവർ വന്ന് എന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരേയൊരു വ്യക്തി നിങ്ങളാണെന്ന് പറയുമോ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ആളുകൾ എത്ര പേരുണ്ട് നിങ്ങൾ നിങ്ങളുടെ പക്വത വൈകാരിക പക്വത എന്നിവ വികസിപ്പിക്കുകയാണെന്ന് ഇപ്പോൾ അത് കാണിക്കുന്നു ഗ്രഹണക്ഷമതയുടെ കാര്യത്തിൽ പിന്നെ അവസാനത്തേത് എന്നാൽ ഏറ്റവും കുറഞ്ഞതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ ആത്മീയ ബുദ്ധിയാണ് ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ ഈ ആവശ്യ നേട്ടത്തിലും സ്വയം യാഥാർത്ഥ്യത്തിലും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കും പിന്നീടുള്ള ഒരു പാഠത്തിൽ എന്നാൽ ഈ ഘട്ടത്തിൽ ഇത് എന്താണ് ആത്മീയമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ഇതിന് മതവുമായി യാതൊരു ബന്ധവുമില്ല ഇത് ഉയർന്ന തലത്തിലുള്ള വൈകാരിക ബുദ്ധിയാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വികാരത്തിനും അതീതമായ കാര്യങ്ങൾ ഉണ്ട് അവിടെ എന്തോ ഉണ്ട് ആത്മാവാണ് ശരി അത് എല്ലാവരുമായും ബന്ധമുള്ള ആത്മാവാണ് മറ്റ് മനുഷ്യർ മറ്റെല്ലാ പ്രപഞ്ചവും നിങ്ങൾ ഒരു കോർഡ് അടിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ആത്മീയതയുടെ ഏത് തലമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഉള്ള ബുദ്ധി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഉയർന്ന ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നുണ്ടോ ആളുകൾ നമ്മെ മാതൃകകളായി കാണുന്നുണ്ടോ നിങ്ങളിൽ എത്രപേർ ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് അറിയുക കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ ഒരു റോളായി എടുക്കുന്നുവെന്ന് അവർ പലപ്പോഴും പറയുന്നു മോഡലുകൾ കുറഞ്ഞത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ മാതൃകയായി എടുക്കുന്നുണ്ടോ കുടുംബ തലത്തിൽ പക്ഷേ പ്രൊഫഷണൽ തലത്തിൽ എത്ര പേർക്ക് കാണാൻ കഴിയും നിങ്ങൾ ഒരു മാതൃകയാണ് നിങ്ങൾ എത്ര പേരെ പ്രചോദിപ്പിക്കുന്നു മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഉയർന്ന തലത്തിലുള്ള ബോധം എന്താണ് എത്തിച്ചേരുമോ പിന്നെ ലോകത്തെ മാറ്റാനും അതിനെ ഒരു മികച്ച സ്ഥലമാക്കി മാറ്റാനുമുള്ള സഹജാവബോധം നിങ്ങളിൽ ഉണ്ടോ നിങ്ങളുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്നതിനുപകരം ജെയിംസ് ബോണ്ടിനെപ്പോലെ നിങ്ങൾ ലോകത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഹജാവബോധം നിങ്ങളിൽ ഉണ്ടോ ശത്രുക്കളിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആളുകളെ രക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ അവരെ ഒരു മികച്ച സ്ഥലത്ത് താമസിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സംഭാവന നൽകുന്നു അതിനാൽ നിങ്ങൾ കാരണം പ്രപഞ്ചം അൽപ്പം മെച്ചപ്പെടും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തു എന്നിട്ട് നിങ്ങൾ ലൌകികമായ നിസ്സാരതയെ മറികടന്ന് നിങ്ങളുടെ ജീവിതം നയിക്കുന്നുണ്ടോ സർഗ്ഗാത്മകവും സ്നേഹമുള്ളതും നിസ്വാർത്ഥവും ശാന്തവും അനുകമ്പയുള്ളതും ധീരവും മാതൃകാപരവുമായ ഉദാത്തമായ ആത്മാവ് മാതൃകാപരമായ ആ മാന്യമായ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ആത്മീയ തലത്തിലെത്തുകയാണ് ആവശ്യമായ എല്ലാ സോഫ്റ്റ് കഴിവുകളും വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ബുദ്ധി ഇപ്പോൾ ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അവ വീണ്ടും പുനരവലോകനം ചെയ്യുക ആവശ്യമെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക തുടക്കത്തിൽ എളുപ്പമല്ലെന്ന് നിങ്ങൾ കരുതുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അതിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് ഈ പ്രഭാഷണം പൂർത്തിയാക്കുക ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ വൈകാരിക ബുദ്ധി വികസിപ്പിക്കുകയും ഉയർന്ന ആത്മീയ ബുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ വ്യക്തവും സുതാര്യവുമായിരിക്കും ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചാലും ഇല്ല ഒരാൾ അത് വിശ്വസിക്കും ജനങ്ങൾക്ക് സുതാര്യതയുടെ ആ തലത്തിലെത്താൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വ്യക്തമായും സുതാര്യമായും അറിയുകയും പിന്നീട് നിങ്ങളെക്കുറിച്ച് വളരെ ഉയർന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു അടുത്ത പ്രഭാഷണത്തിൽ കാണാം നന്ദിയും പറഞ്ഞു